നമസ്കാരം മെക്കോബയോളജിയുടെ ആമുഖത്തിൻറെ ഇന്നത്തെ NPTEL ലെക്ച്ചറിലേക്ക് സ്വാഗതം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സെൽ മൈഗ്രേഷനെക്കുറിച്ചും സെൽ മൈഗ്രേഷൻ നയിക്കുന്നതിൽ ആക്റ്റിൻ ചലനാത്മകതയുടെ പങ്കിനെക്കുറിച്ചും ചർച്ചചെയ്യാൻ ആരംഭിച്ചു മൈഗ്രേഷനെ അഡ്ഹീഷൻ ഡിപൻഡന്റ് എന്ന് വിളിക്കുന്നു അല്ലെങ്കിൽ മിസെൻകൈമൽ എന്ന പദം അഥവാ മിസെൻകൈമൽ മൈഗ്രേഷൻ എന്നും ഉപയോഗിക്കുന്നു ഫൈബ്രോബ്ലാസ്റ്റുകൾ എപ്പിത്തീലിയൽ സെല്ലുകൾ തുടങ്ങിയ സെല്ലുകൾ എല്ലാം മിസെൻകൈമൽ മൈഗ്രേഷൻ പ്രകടമാക്കുന്നു സെൽ മൈഗ്രേഷന്റെ ഘട്ടങ്ങൾ എന്തൊക്കെയാണ് നിങ്ങൾക്ക് പ്രതലത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു സെൽ ഉണ്ടെങ്കിൽ ഇത് അഡ്ഹീഷനുകളാണെന്ന് നമുക്ക് പറയാംഞാൻ സെല്ലിന്റെ സ്ഥാനം വരയ്ക്കട്ടെ അപ്പോൾ അത് ആരംഭിക്കുന്നത് പ്രൊട്രുഷനിൽ നിന്നാണ് അഥവാ ലീഡിംഗ് എഡ്ജിന്റെ പ്രൊട്രുഷനിൽ നിന്നാണ് അപ്പോൾ നിങ്ങൾക്ക് ലീഡിംഗ് എഡ്ജിലെ ചെറിയ പ്രൊട്രുഷൻ ഉണ്ട് ഇവിടെ ഒരു അഡ്ഹീഷൻAdheshion ഉണ്ടായിരുന്നു രണ്ടാമതായി ഈ പ്രൊട്രുഷനെ സ്ഥിരീകരിക്കുന്നു പ്രൊട്രുഷൻ സ്ഥിരത കൈവരിക്കുന്നത് ഫോക്കൽ അഡ്ഹീഷനുകൾ രൂപപ്പെടുന്നതിലൂടെയാണ് ചുവന്ന നിറം ഉപയോഗിച്ച് ഞാൻ വരച്ചവ പോലെയുള്ള പുതിയ ഫോക്കൽ അഡ്ഹീഷൻ നിങ്ങൾക്ക് ഉണ്ടാകും അതിനാൽ ഇത് പ്രൊട്രുഷനെ സ്ഥിരമാക്കുന്ന ഒരു പുതിയ ഫോക്കൽ അഡ്ഹീഷനാണ് മൂന്നാമത്തെ ഘട്ടമെന്ന നിലയിൽ നിങ്ങൾക്ക് ട്രാൻസ് ലൊക്കേഷൻ ഉണ്ട് അതിൻറെ ഫലമായി സെൽ മുന്നോട്ട് വലിക്കപ്പെടുന്നു അവസാന ഘട്ടം ട്രെയ്ലിങ് എഡ്ജ് അഥവാ സെല്ലിൻറെ അവസാനഭാഗത്തിൻറെ പിൻവലിയൽ അല്ലെങ്കിൽ ഡി അഡ്ഹീഷൻ ആണ് പിൻവലിയലിൻറെ ഈ സാഹചര്യത്തിൽ അവസാന ഭാഗത്തുള്ള അഡ്ഹീഷനുകൾ നശിക്കുന്നു നമ്മൾ താൽപര്യപ്പെടുന്നത് മിസെൻകൈമൽ മൈഗ്രേഷന്റെ സമയത്ത് പ്രോട്ടീൻ ചലനാത്മകത പ്രത്യേകിച്ചും മിസെൻകൈമൽ മൈഗ്രേഷന്റെ സമയത്തെ ആക്റ്റിൻ ചലനാത്മകത എങ്ങനെ ദൃശ്യവൽക്കരിക്കാമെന്ന് മനസ്സിലാക്കാനാണ് ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ ഫ്ലൂറസെൻസ് സ്പെക്കിൾ മൈക്രോസ്കോപ്പി എന്ന ഈ സാങ്കേതികവിദ്യ അവതരിപ്പിച്ചു ഇതിൻറെ ആശയം എന്തെന്നാൽ നിങ്ങൾക്ക് ഒരു ഫിലമെന്റ് ഉണ്ടെങ്കിൽ ഇത് ഒരു ഫിലമെന്റാണ് ഈ നീല നിറം ഫ്ലൂറസെന്റ് സ്പെക്കിളുകളെ പ്രതിനിധീകരിക്കുന്നു അതിനാൽ ഈ സ്പെക്കിളിൻറെ സ്ഥാനവും അവയുടെ തീവ്രതയും ട്രാക്കു ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ഫ്ലോ സംബന്ധിച്ചും ടേൺ ഓവർനെ സംബന്ധിച്ചും വിവരങ്ങൾ നേടാൻ കഴിയും ടേൺ ഓവർ എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് പോളിമറൈസേഷൻ അല്ലെങ്കിൽ ഡി പോളിമറൈസേഷൻ എന്നാണ് സാധാരണയായി ഫ്ലൂറസെന്റ് സ്പെക്കിൾ മൈക്രോസ്കോപ്പിയിൽ 1 മുതൽ 2 ശതമാനം ഓർഡർ വരെ മോണോമറുകൾ ഫ്ലൂറസന്റ് ലേബൽ ചെയ്യുന്നു നിങ്ങൾക്ക് ഒരു സ്ട്രെസ് ഫൈബർ ഉണ്ടെങ്കിൽ ഫ്ലൂറസെൻസ് സ്പെക്കിൾ മൈക്രോസ്കോപ്പി ഉപയോഗിച്ച് ചിത്രീകരിക്കുന്ന ഒരു സ്ട്രെസ് ഫൈബർ നമ്മുടെ പക്കലുണ്ട് കേടുപാടുകൾ സംഭവിക്കാത്ത ഫൈബറിന് പകരം ഏകദേശം വിന്യസിച്ചിരിക്കുന്നതായ ബിന്ദുക്കളാണ് നിങ്ങൾ കാണുക ഇവ സ്ട്രെസ് ഫൈബറുകളുടെ ഭാഗങ്ങളാണെന്ന് നിങ്ങൾക്കറിയാം അതുപോലെ നിങ്ങൾക്ക് ഒരു അഡ്ഹീഷൻ ഉണ്ടെങ്കിൽ ആ അഡ്ഹീഷനുകളിൽ അണിനിരക്കുന്ന ഈ ബിന്ദുക്കൾ നിങ്ങൾക്ക് ഉണ്ടായിരിക്കാം എങ്ങനെയാണ് നിങ്ങൾക്ക് ഫ്ലൂറസെൻസ് സ്പെക്കിൾ മൈക്രോസ്കോപ്പി ഉപയോഗിച്ച് സ്ട്രെസ് ഫൈബറുകളിൽ അഡ്ഹീഷനുകളുടെ അല്ലെങ്കിൽ ആക്റ്റിന്റെ ചലനാത്മകത ട്രാക്ക് ചെയ്യാനാവുക അതിനാൽ ഈ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് ക്ലെയർ വാട്ടർമാൻ സ്റ്റോർ ഗോഡെൻസ് ഡാനുസർ എന്നിവർ മൈഗ്രേറ്റിങ് സെല്ലുകളിൽ ആക്റ്റിൻ ചലനാത്മകതയുടെ പങ്ക് അന്വേഷിച്ചു അപ്പോൾ FSM ഉപയോഗിച്ച് രചയിതാക്കൾ മൈഗ്രേറ്റിങ് സെല്ലുകളിൽ ആക്റ്റിൻ ചലനാത്മകത പരിശോധിച്ചു അവർ കണ്ടെത്തിയത് എന്തെന്നാൽ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്ത രണ്ട് കാര്യങ്ങളുണ്ട് നിങ്ങൾക്ക് രണ്ട് സോണുകൾ ഉണ്ടായിരിക്കും അതായത് ഞാൻ വരച്ച പച്ച ബിന്ദുക്കൾ ഇവ സ്പെക്കിളുകൾ ആണ് ഇതാണ് മൈഗ്രേഷൻൻറെ ദിശ അതിനാൽ അവർ കണ്ടെത്തിയത് എന്തെന്നാൽ സ്പെക്കിളുകളുടെ രണ്ടു സമൂഹങ്ങൾ ഉണ്ട് ഈ സ്പെക്കിളുകളെല്ലാം റിട്രോഗ്രേഡ് ഫ്ലോ കാണിക്കുന്നു എന്തുകൊണ്ടാണ് റിട്രോഗ്രേഡ് ഫ്ലോ കാരണം സ്പെക്കിളിന്റെ ചലനം ദിശക്ക് അല്ലെങ്കിൽ സെൽ മൈഗ്രേഷന് എതിരാണ് എന്നാൽ നിങ്ങൾക്ക് രണ്ട് സോണുകളുള്ളതിനാൽ ഈ മുഴുവൻ വസ്തുക്കളെയും റിട്രോഗ്രേഡ് ഫ്ലോയുടെ രണ്ട് വ്യത്യസ്ത പ്രദേശങ്ങളായി വേർതിരിക്കാനാകും അതിനാൽ നിങ്ങൾക്ക് ഒരു സോൺ ഉണ്ട് അതിൽ സ്പെക്കിളുകൾ വേഗത്തിൽ റിട്രോഗ്രേഡ് ഫ്ലോ കാണിക്കുന്നു രണ്ടാമത്തേതിൽ അവ സാവധാനം ചലിക്കുന്നു അതിനാൽ ഇവിടെ റിട്രോഗ്രേഡ് ഫ്ലോ വേഗതയേറിയതാണ് ഇവിടെ വേഗത കുറവാണ് അതുമാത്രമല്ല രണ്ട് സോണുകളിൽ ആദ്യത്തേതിൽ സ്പെക്കിളുകൾ വേഗത്തിൽ ചലിക്കുന്നു അതിൽ നിങ്ങൾക്ക് സ്പെക്കിളുകളുടെ രണ്ടു സമൂഹമുണ്ട് പച്ച നിറത്തിലുള്ള സ്പെക്കിളുകൾ പോളിമറൈസേഷൻ കാണപ്പെടുന്നവയാണ് ചുവപ്പ് നിറങ്ങൾ ഡി പോളിമറൈസേഷനെ സൂചിപ്പിക്കുകയും ചെയ്യുന്നു ചുരുക്കത്തിൽ ആദ്യത്തെ സോണിന് ഉയർന്ന പോളിമറൈസേഷനും ഉയർന്ന ഡി പോളിമറൈസേഷനും അതിനോടൊപ്പം അതിവേഗ റിട്രോഗ്രേഡ് ഫ്ലോയും ഉണ്ട് രണ്ടാമത്തേതിൽ നിങ്ങൾക്ക് വേഗത കുറഞ്ഞ പ്രവാഹവും മിശ്രിതമായ ടേൺ ഓവർ പാറ്റേണും ഉണ്ട് ആദ്യത്തെ ഈ സോണിനെ ലാമെല്ലിപോഡിയ എന്നും ഈ സോണിനെ ലാമെല്ലം അല്ലെങ്കിൽ ലാമെല്ല എന്നും വിളിക്കുന്നു ഞാൻ ചർച്ച ചെയ്തത് എന്തെന്നാൽ ഈ രണ്ട് സോണുകളും തന്മാത്ര പരമായി വിഭിന്നമായവയാണ് ഞാൻ ഇതിനെ ഈ വലിയ "L" എന്നും ഇതിനെ ഈ ചെറിയ "l" എന്നും വിളിക്കാം വലിയ "L" ൽ നിങ്ങൾക്ക് Arp 23 പോലുള്ള ആക്റ്റിൻ ബ്രാഞ്ചിംഗ് പ്രോട്ടീനുകളും കോഫിലിൻ പോലുള്ള ആക്റ്റിൻ ഡിപോളിമറൈസിങ് പ്രോട്ടീനുകളും ഉണ്ട് ചെറിയ "l" അഥവാ ലാമെല്ലയിൽ മയോസിൻ II കൂടാതെ ട്രോപോമയോസിൻ എന്നിവയെല്ലാമാണ് ഈ സോണിൽ കാണപ്പെടുന്നത് അതിനാൽ ഈ സോണുകൾ തന്മാത്രാ പരമായി വിഭിന്നമാണ് കൂടാതെ റിട്രോഗ്രേഡ് ഫ്ലോയും പോളിമറൈസേഷൻ ഡിപോളിമറൈസേഷൻ ചലനാത്മകതയും വ്യത്യസ്തമാണ് ഈ രണ്ട് സോണുകളും ഘടകപരമായി വ്യത്യസ്തമാണോ അതോ സ്പെക്കിളുകളുടെ സ്വഭാവത്തിൽ പടിപടിയായുള്ള വ്യത്യാസമാണോ ഉള്ളത് എന്ന ചോദ്യം ഉയരുന്നു ഈ ചോദ്യത്തിന് ഉത്തരം നൽകാൻ രചയിതാക്കൾ ചെയ്തത് സെല്ലിന്റെ അഗ്രഭാഗം അവർ തിരഞ്ഞെടുത്തു നമുക്ക് ഇതിനെ A മുതൽ B വരെ എന്ന് പറയാം അപ്പോൾ ഇതിന് കുറുകെ ഓരോ ബിന്ദുവിന്റെയും ലംബങ്ങൾ അവർ തിരഞ്ഞെടുത്തു ഞാൻ വരച്ചിട്ടുള്ളത് ലീഡിങ് എഡ്ജിന് ലംബമായിട്ടുള്ള ദിശകൾ ആണ് പോളിമറൈസേഷനും ഡിപോളിമറൈസേഷനും ഈ വരകളിൽ എങ്ങനെ വ്യത്യാസപ്പെടുന്നുവെന്ന് നമ്മൾ ചോദിക്കുന്നു അതിനാൽ ഇത് വര 1 ആണെന്ന് നമുക്ക് പറയാം ഇത് വര 2 ആകാം ഇത് ഇങ്ങനെ തുടരുന്നു അതിനാൽ ഈ വരകളിലെ വിവിധ സ്ഥലങ്ങളിൽ സ്പെക്കിളുകളുടെ തീവ്രത ട്രാക്കു ചെയ്യുന്നതിലൂടെ ആ നീളത്തിൽ മൊത്തത്തിലുള്ള പോളിമറൈസേഷൻ നിരക്ക് എത്രയാണെന്ന് നിങ്ങൾക്ക് ട്രാക്കു ചെയ്യാനാകും രചയിതാക്കൾ കണ്ടെത്തിയത് ഇപ്രകാരമാണ് ഞാൻ പോളിമറൈസേഷൻ നിരക്ക് വരയ്ക്കുകയാണെങ്കിൽ ഞാൻ കാണുക എന്തെന്നാൽ ഈ ബിന്ദു ലീഡിങ് എഡ്ജുമായി യോജിക്കുന്നു ഈ സ്ഥാനത്ത് നിന്ന് ഞാൻ അകത്തേക്ക് പോകുന്നു അല്ലെങ്കിൽ ഈ ബിന്ദുവിൽ നിന്നും ഞാൻ അകത്തേക്ക് ട്രാക്കു ചെയ്യുന്നു അവർ കണ്ടെത്തിയത് പോളിമറൈസേഷൻ പീക്ക് ആണ് ഞാൻ ഇത് വരയ്ക്കാം ഈ വരയിൽ ഉള്ള പോളിമറൈസേഷൻ നിരക്ക് ഇതാണ് ഞാൻ പീക്കിന്റെ ഈ സ്ഥാനവും കൂടാതെ ഈ സ്ഥാനവും കാണിക്കട്ടെ ഡിപോളിമറൈസേഷൻ നിരക്ക് പ്ലോട്ട് ചെയ്യുന്നതിനാൽ ഞാൻ അത് നെഗറ്റീവ് ദിശയിൽ പ്ലോട്ട് ചെയ്യുന്നു നിങ്ങൾക്ക് കാണാൻ സാധിക്കുക എന്തെന്നാൽ ആദ്യത്തെ ഈ പീക്കിൽ നിന്നും അല്പം അകലെയുള്ള ഒരു പീക്ക് കാണുന്നു തുടർന്ന് അത് താഴുകയും ഈ രേഖ ലഭിക്കുകയും ചെയ്യുന്നു അതിനാൽ ഇത് ഡിപോളിമറൈസേഷനെ സൂചിപ്പിക്കുന്നു ഇതാണ് പീക്കിൻറെ സ്ഥാനം ഈ പീക്ക് വലത്തേക്ക് ചായ്വ് ഉള്ളതാണ് ഈ രണ്ട് സിഗ്നലുകളും സംയോജിപ്പിച്ചാൽ എനിക്ക് നെറ്റ് അസംബ്ലി നിരക്ക് പ്ലോട്ട് ചെയ്യാൻ കഴിയും ഇതാണ് എന്റെ നെറ്റ് അസംബ്ലി Net assemblyനിരക്ക് അതിനാൽ പോളിമറൈസേഷനും ഡിപോളിമറൈസേഷനും കൂടെ ചേർത്ത് രണ്ട് സിഗ്നലുകളുടെയും ആകെത്തുക എനിക്ക് നെറ്റ് അസംബ്ലി Net assemblyനിരക്ക് നൽകും ഇത് 0 ആണെന്ന് നമുക്ക് പറയാം നിങ്ങൾ കാണുക എന്തെന്നാൽ മൊത്തം പോളിമറൈസേഷനെ സൂചിപ്പിക്കുന്ന ഒരു പോസിറ്റീവ് പീക്ക് അതിനെ തുടർന്ന് ഡിപോളിമറൈസേഷന്റെ നെഗറ്റീവ് പീക്ക് കൂടാതെ ഇവിടെ ഒരു ചെറിയ പീക്കും രചയിതാക്കൾ മനസ്സിലാക്കിയത് എന്തെന്നാൽ ഈ സോൺ പോളിമറൈസേഷൻ പീക്കിനെ തുടർന്ന് ഡിപോളിമറൈസേഷൻപീക്ക് വരുന്നതായ ഈ മുഴുവൻ സോണിലും സ്പെക്കിളുകൾവേഗത്തിൽ ചലിക്കുന്നുണ്ട് എന്നാണ് നിങ്ങൾ ഈ കർവിലേക്ക് നോക്കുകയാണെങ്കിൽ അത് ഒരു സൈൻ കർവ് പോലെ കാണപ്പെടുന്നു നിങ്ങൾക്ക് ഇവിടെ പോസിറ്റീവ് ഉണ്ട്അതുപോലെ ഇവിടെ നിങ്ങൾക്ക് ഏതാണ്ട് നെഗറ്റീവ് ഉണ്ട് നിങ്ങൾ ഈ രണ്ട് കർവുകളുടെ വിസ്തീർണ്ണം എടുത്ത് അവയെ കൂട്ടി നോക്കിയാൽ നിങ്ങൾക്ക് 0 ലഭിക്കും ഇത് സൂചിപ്പിക്കുന്നത് ലീഡിങ് എഡ്ജിലെ പോളിമറൈസേഷന് ആവശ്യമായ പദാർത്ഥങ്ങൾ നൽകുന്നത് അല്പം പുറകിലുള്ള ഫിലമെന്റുകളുടെ ഡിപോളിമറൈസേഷൻ വഴിയാണ് അപ്പോൾ ഈ ഡിപോളിമറൈസേഷൻ പോളിമറൈസേഷന്സംഭവിക്കുന്നതിനു ആവശ്യമായ മോണോമറുകൾ നൽകുന്നുണ്ട് അതിനാൽ നിങ്ങൾക്ക് ഒരു പോളിമറൈസേഷൻ ഇവന്റും തുടർന്ന് ഡിപോളിമറൈസേഷൻ ഇവന്റും ഉണ്ട് അതിനാൽ ഇത് സൂചിപ്പിക്കുന്നത് ലാമെല്ലിപോഡിയ ലാമെല്ല ഈ രണ്ടു ശൃംഖലകളുടെയും പദാർത്ഥങ്ങൾ വിഭിന്നമാകാനുള്ള സാധ്യത ഉണ്ടെന്നാണ് ലാമെല്ലിപോഡിയയും ലാമെല്ലയും ഘടകപരമായി വ്യത്യസ്തമാണെന്ന് പറയുമ്പോൾ ഇതിനർത്ഥം ഞാൻ ഇവിടെ ഈ വര വരച്ചാൽ ഇത് ഇന്റർഫേസ്Interfaceആണെന്ന് നമുക്ക് പറയാം ഇതാണ് ലാമെല്ലിപോഡിയ ലാമെല്ല ഇന്റർഫേസ് ഇത് എന്താണ് അർത്ഥമാക്കുന്നത് ഈ രണ്ട് ശൃംഖലകളും ഘടകപരമായി വ്യത്യസ്തമാണെങ്കിൽ ഇതിനർത്ഥം ഈ ആദ്യ പാളിയിൽ അഥവാ ലാമെല്ലിപോഡിയയിൽ പോളിമറൈസേഷന് ആവശ്യമായ മോണോമറുകൾ ലാമെല്ലിപോഡിയയിലെ ഡിപോളിമറൈസേഷൻ സോണിലെ ഫിലമെന്റുകളുടെ ഡിപോളിമറൈസേഷനിൽ നിന്നാണ് വരുന്നതെന്നാണ് അപ്പോൾ ലാമെല്ലയിൽ നിന്ന് ലാമെല്ലിപോഡിയയിലേക്ക് മോണോമർ ഗതാഗതമില്ല ഇത് ശരിയാണോയെന്ന് പരിശോധിക്കാൻ അവർ ചെയ്തത് എന്തെന്നാൽ സ്പെക്കിളുകളുടെ ശരാശരി ആയുസ്സ് നിരീക്ഷിച്ചു അവർ കണ്ടെത്തിയത് എന്തെന്നാൽ അതിവേഗ സ്പെക്കിളുകളുടെ രണ്ടു വിഭാഗങ്ങളുണ്ട് അതിവേഗം ചലിക്കുന്നതും എന്നാൽ ഹ്രസ്വമായ ആയുസ്സുള്ളവയുമായ ഒരു വിഭാഗം ലാമെല്ലിപോഡിയയിൽ ഉള്ള സ്പെക്കിളുകൾ ആണിവ ഹ്രസ്വമായ ആയുസ്സ് ഉയർന്ന ടേണോവറിനെസൂചിപ്പിക്കുന്നതിനാൽ ഇത് അർത്ഥവത്താണ് അപ്പോൾ പോളിമറൈസേഷനിലേയ്ക്ക് നയിക്കുന്ന ലീഡിങ് എഡ്ഡ്ജിൽ ചേർക്കാൻ കഴിയുന്ന മോണോമറുകൾ നൽകുന്നു രണ്ടാമത്തെ വിഭാഗം സാവധാനത്തിൽ നീങ്ങുന്നതും നീണ്ടുനിൽക്കുന്നതുമായിരുന്നു ഇവ ലാമെല്ലയിൽ ഉള്ളവയാണ് അടുത്തതായി ഉയർന്നുവരുന്ന ചോദ്യം റിട്രോഗ്രേഡ് ഫ്ലോയ്ക് എന്താണ്സംഭാവന ചെയ്യുന്നത് എന്നതാണ് മയോസിൻ II എന്താണ് ചെയ്യുന്നത് എന്ന് നിങ്ങൾക്ക് മുൻപേ തന്നെ അറിയാം ഇത് ആക്റ്റിൻ ഫിലമെന്റുകളിലെ സ്ട്രെസ് ഫൈബറുകളെ വലിക്കുന്നു സെല്ലുകൾ പ്രതലവുമായി ബന്ധിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇത് സങ്കോചപരമായ ഫോഴ്സുകളെ സൃഷ്ടിക്കുന്നു അവർ ലീഡിങ് എഡ്ഡ്ജിലെ സെല്ലുകളിൽ ബ്ലെബിസ്റ്റാറ്റിൻ ഉപയോഗിച്ചുകൊണ്ടുള്ള ഈ പരീക്ഷണം നടത്തി മയോസിൻ II പ്രവർത്തനത്തെ തടയുന്ന ഒരു മരുന്നാണിത് അപ്പോൾ ഇത് മയോസിൻ II പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുന്നു പെർഫ്യൂഷൻ പരീക്ഷണങ്ങൾ നടത്തിയതിലൂടെ അവർ കണ്ടെത്തിയത് എന്തെന്നാൽ ഇത് ലീഡിങ് എഡ്ജ് ആണെന്നും റിട്രോഗ്രേഡ് ഫ്ലോ ഉണ്ടെന്നും പറയാം നിങ്ങൾക്ക് ഇവിടെ വേഗതയേറിയ റിട്രോഗ്രേഡ് ഫ്ലോ അവയെ പിന്തുടർന്ന് വേഗത കുറവുള്ളവയും ഉണ്ടായിരുന്നു ഇത് വേഗതയേറിയതാണ് ഇത് സ്ലോ റിട്രോഗ്രേഡ് ഫ്ലോ ആണ് ഇത് ബ്ലെബ് ഇല്ലാതെയാണ് നിങ്ങൾ ബ്ലെബ് ചേർക്കുമ്പോൾ ഈ കണികകൾ റിട്രോഗ്രേഡ് ഫ്ലോ നിലനിർത്തുന്നു എന്നാൽ ആന്തരികമായ ഈ കണികകളിലെല്ലാം റിട്രോഗ്രേഡ് ഫ്ലോ ഇല്ലാതാകന്നു അപ്പോൾ നിങ്ങളുടെ റിട്രോഗ്രേഡ് ഫ്ലോ ഏതാണ്ട് ഇല്ലാതാകുന്നു മയോസിൻ II പ്രവർത്തനത്തെ തടയുന്ന ബ്ലെബ്ബിസ്റ്റാറ്റിന്റെ സാന്നിധ്യത്തിൽ നിങ്ങളുടെ റിട്രോഗ്രേഡ് ഫ്ലോ ഇല്ലാതാകുമ്പോൾ ഇത് തെളിയിക്കുന്നത് എന്തെന്നാൽ ലാമെല്ലാർ മേഖലയിലെ റിട്രോഗ്രേഡ് ഫ്ളോയ്ക് ആക്റ്റിൻ ഫിലമെന്റുകളെ വലിക്കുന്നതിലൂടെ മയോസിൻ കാരണമാകുന്നു അതിനാൽ നിങ്ങൾ ബ്ലെബിസ്റ്റാറ്റിൻ ചേർക്കുമ്പോൾ റിട്രോഗ്രേഡ് ഫ്ലോ നഷ്ടപ്പെടുന്നതിന് കാരണം ഫിലമെന്റുകൾ പിന്നിലേക്ക് വലിക്കപ്പെടുന്നതാണ് അങ്ങനെയാണെങ്കിൽ ലീഡിങ് എഡ്ജിലുള്ള Leading edge റിട്രോഗ്രേഡ് ഫ്ലോയ്ക്ക് എന്താണ് സംഭാവന ചെയ്യുന്നത് ലീഡിങ് എഡ്ജിലുള്ള Leading edge റിട്രോഗ്രേഡ് ഫ്ലോയ്ക്ക് എന്താണ് സംഭാവന നൽകുന്നത് എന്ന ചോദ്യം ചോദിക്കുന്നതിനായി അഥവാ ഈ ചോദ്യത്തിന് ഉത്തരം നൽകുന്നതിന് സെല്ലുകളിൽ സൈറ്റോകലേസിൻ ഡി പ്രയോഗിക്കുകയാണ് രചയിതാക്കൾ ചെയ്തത് ഈ മരുന്ന് ഇത് ആക്റ്റിൻ പോളിമറൈസേഷനെ തടയുന്നു ഇത് എന്റെ സെല്ലിന്റെ ലീഡിങ് എഡ്ജ് ആണെങ്കിൽ രചയിതാക്കൾ ചെയ്തത് അവയെ വേർപ്പെടുത്തുകയായിരുന്നു അതായത് അവർ സെല്ലിന്റെ ലീഡിങ് എഡ്ജിനെ ചെറിയ ഭാഗങ്ങളായി വേർപ്പെടുത്തി ഇവ ഓരോന്നും ഓരോ ചെറിയ ഭാഗങ്ങളാണ് ഇത് എന്റെ ഭാഗം ഭാഗം 1 ആണെന്നും ഇത് എന്റെ ഭാഗം 40 ആണെന്നും നമുക്ക് പറയാം ഇത് എന്റെ സമയത്തിൻറെ അക്ഷമാണ് ഇത് സ്ഥാനം 1 ഉം സ്ഥാനം 40 ഉം ആണ് നിങ്ങൾക്ക് എഡ്ജിൽ ഉള്ള ടേൺ ഓവർ എഡ്ജ് ഡിസ്പ്ലേസ്മെന്റ് എന്നിവ ട്രാക്കു ചെയ്യാനാകും ഓരോ സമയ ഘട്ടത്തിലും നിങ്ങൾ ഈ മൂല്യങ്ങൾ പ്ലോട്ട് ചെയ്ത് ഒരു കളർ മാപ്പ് ഉണ്ടാക്കുന്നു അപ്പോൾ നിങ്ങൾ ടേൺ ഓവർപ്ലോട്ട് ചെയ്യുന്നു എഡ്ജ് ഡിസ്പ്ലേസ്മെന്റ് പ്ലോട്ട് ചെയ്യുന്നു കൂടാതെ നിങ്ങൾ ശൃംഖലയുടെ ഫ്ലോ പ്ലോട്ട് ചെയ്യുന്നു അതിനാൽ ഫംഗ്ഷനുകളിൽ ഇത് എങ്ങനെ കാണപ്പെടുന്നുവെന്ന് നോക്കാം ഒരു സെൽ മൈഗ്രേറ്റ് ചെയ്യുമ്പോൾ അതായത് ഈ ദിശയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്ന ഒരു സെൽ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് മൂന്ന് കാര്യങ്ങൾ ഉണ്ടാവും ഇത് ടേൺ ഓവർ ആണെന്ന് നമുക്ക് പറയാം അതായത് പെർഫ്യൂഷന് മുമ്പ് അല്ലെങ്കിൽ മരുന്ന് പ്രയോഗിക്കുന്നതിനു മുൻപ് നിങ്ങൾ കാണുക എന്തെന്നാൽ മുൻപ് ഉപയോഗിച്ചിരുന്ന പോലെ ഇവയ്ക്കു പച്ചനിറം ഉപയോഗിക്കാം കൂടാതെ മറ്റ് സോണുകൾക്ക് ചുവപ്പുനിറവും ഇത് വ്യത്യസ്ത സമയ ഘട്ടങ്ങളാണ് സീറോ പോയിൻറ് എന്നു വിളിക്കുന്ന ഈ പൂജ്യത്തിൽ നിന്നാണ് നിങ്ങൾ ആരംഭിക്കുന്നത് എന്ന് പറയട്ടെ ചുവപ്പ് നിറമുള്ളവ ഡിപോളിമറൈസേഷൻ ആണ് അതായത് പച്ച പോളിമറൈസേഷനും ചുവപ്പ് ഡിപോളിമറൈസേഷനുമാണ് Depolymerization ടേൺ ഓവർ സൂചിപ്പിക്കുന്നത് എന്തെന്നാൽ എഡ്ജിലെ ചില ബിന്ദുക്കളിൽ പോളിമറൈസേഷൻ നടക്കുന്നു അവശേഷിക്കുന്ന ചില ബിന്ദുക്കളിൽ ഡിപോളിമറൈസേഷൻ നടക്കുന്നു എനിക്ക് എഡ്ജ് ഡിസ്പ്ലേസ്മെൻറ് പ്ലോട്ട് ചെയ്യണമെങ്കിൽ ഇത് എൻറെ എഡ്ജ് ഡിസ്പ്ലേസ്മെൻറ് ആണെന്ന് പറയാം മുമ്പ് പോളിമറൈസേഷൻ ഉണ്ടായിരുന്ന സ്ഥാനങ്ങളിൽ ഞാൻ കാണുക എന്തെന്നാൽ ഇത് ചുവപ്പു നിറത്തിൽഅവശേഷിക്കുന്നവ നീല നിറത്തിൽ വീണ്ടും ഇവ ചുവപ്പ് നിറത്തിലും വരയ്ക്കാം ഈ വർണ്ണ സ്കീമിൽ നീല നെഗറ്റീവും ചുവപ്പ് പോസിറ്റീവും കൂടാതെ പരമാവധിയും ആണ് പോസിറ്റീവ് എന്നതിനർത്ഥം സെൽ പുറത്തേക്ക് നീങ്ങുന്നു എന്നാണ് അതിനാൽ പോളിമറൈസേഷൻ സംഭവിച്ചയിടത്ത് എഡ്ജ് പുറത്തേക്ക് നീങ്ങി അതാണ് എന്റെ പോസിറ്റീവ് ദിശ ശേഷിക്കുന്ന ബിന്ദുക്കളിൽ ഡിപോളിമറൈസേഷൻ സംഭവിച്ച ഇടത്ത് സെൽ പ്രാദേശികമായി പിന്നിലേക്ക് നീങ്ങിയിരിക്കുന്നു അതാണ് നിങ്ങൾ കാണുന്നത് കൂടാതെ ശൃംഖല ഫ്ലോയുടെ കാര്യത്തിൽ ഇത് റിട്രോഗ്രേഡ് ഫ്ലോ ആയതിനാൽ നിങ്ങൾക്ക് ഇവ മുഴുവനും നീല നിറമായിരിക്കും എന്നാൽ ഇവിടെ കടുത്ത നീല നിറവും ഇവിടെ ഇളം നീല നിറവും ആയിരിക്കും അതിനാൽ ഇതാണ് എന്റെ റിട്രോഗ്രേഡ് ഫ്ലോ അപ്പോൾ ഒരു പോളിമറൈസേഷൻ ഇവന്റ് ഒരു എഡ്ജ് ഡിസ്പ്ലേസ്മെന്റുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കൂടാതെ റിട്രോഗ്രേഡ് ഫ്ലോയുമായും ബന്ധപ്പെട്ടിരിക്കുന്നു അതിനാൽ പോളിമറൈസേഷൻpolymerization എഡ്ജ് ഡിസ്പ്ലേസ്മെന്റിന് കാരണമാകുന്നു ഇത് റിട്രോഗ്രേഡ് ഫ്ലോയ്ക്ക് കാരണമാകുന്നു ഞാൻ ഇന്നത്തേക്ക് ഇവിടെ നിർത്തുന്നു അടുത്ത ലെക്ച്ചറിൽ നമ്മൾ ഇവിടെ നിന്ന് തുടരും